നമസ്കാരം അവസാന ക്ലാസ്സിൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെയും സമാന്തര ആർഎൽസി സർക്യൂട്ടിന്റെയും സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഈ തരം സർക്യൂട്ടുകൾ പരിഹരിക്കാനുള്ള സമവാക്യമായി നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിക്കുമെന്ന് കണ്ടു ഈ സർക്യൂട്ട് കൂടുതൽ സങ്കീർണ്ണമാകുമ്പോൾ ചിലപ്പോൾ ഇത്തരം സമവാക്യങ്ങൾ പരിഹരിക്കാൻ പ്രയാസമാണ് അതിനാൽ മറ്റൊരു സാങ്കേതികത മനസിലാക്കാൻ ശ്രമിക്കും അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഈ തരത്തിലുള്ള സർക്യൂട്ടുകളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രയോഗിക്കുമ്പോൾ ആദ്യ ഓർഡറും രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടും പരിഹരിക്കുന്നത് കൂടുതൽ എളുപ്പമാണ് അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് മനസിലാക്കാൻ ആദ്യം ശ്രമിക്കാം അതിനാൽ ഈ മൊഡ്യൂളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പരിചയപ്പെടുത്തും ഇത് സിനുസോയ്ഡൽ അല്ലെങ്കിൽ സിനുസോയ്ഡൽ അല്ലാത്ത ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള വളരെ ശക്തമായ ഉപകരണമാണ് ടൈം ഡൊമെയ്നിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് സർക്യൂട്ട് പരിവർത്തനം ചെയ്യാനും പരിഹാരം നേടാനും ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നു അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുമ്പോൾ ആദ്യം സർക്യൂട്ടിനെ ടൈം ഡൊമെയ്നിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യും അതിന്റെ പരിഹാരം നേടും തുടർന്ന് വിപരീത ലാപ്ലേസ് ട്രാൻസ്ഫോം വീണ്ടും പ്രയോഗിക്കുകയും ഫലം ടൈം ഡൊമെയ്നിൽ പരിവർത്തനം ചെയ്യുകയും ചെയ്യും ഫേസർ വിശകലനത്തേക്കാൾ വൈവിധ്യമാർന്ന ഇൻപുട്ടുകൾക്ക് ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രയോഗിക്കാൻ കഴിയും അതിനാൽ പ്രാരംഭ പ്രഭാഷണങ്ങളിൽ ഫേസർ എന്താണെന്നും ഫേസർ വിശകലനത്തിന്റെ സഹായത്തോടെ സർക്യൂട്ട് എങ്ങനെ പരിഹരിക്കാമെന്നും ചർച്ച ചെയ്തു എന്നാൽ ഫേസർ വിശകലനത്തിന് അതിന്റേതായ പരിമിതികളുണ്ട് കാരണം ഇത് വൈവിധ്യമാർന്ന ഇൻപുട്ടുകളിൽ പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ പരിഹരിക്കുന്നതിലെ ഫേസർ വിശകലനത്തേക്കാൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എളുപ്പവും ശക്തവുമാകുന്നത് അതിനാൽ പ്രാരംഭ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന സർക്യൂട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഇത് നൽകുന്നു കാരണം ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾക്ക് പകരം ബീജഗണിത സമവാക്യങ്ങളുമായി പ്രവർത്തിക്കാൻ ഇത് അനുവദിക്കുന്നു അതിനാൽ ആർഎൽസി സർക്യൂട്ടുകളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ സമാഹരിച്ചതായി കണ്ടു ആ ഡിഫറൻഷ്യൽ സമവാക്യം ഇവിടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു ബീജഗണിത സമവാക്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിഫറൻഷ്യൽ സമവാക്യ പരിഹാരം അൽപ്പം സങ്കീർണ്ണമാകും ബീജഗണിത സമവാക്യങ്ങൾ പരിഹരിക്കാൻ എളുപ്പമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം നടത്തുന്നതിന്റെ പ്രയോജനം സർക്യൂട്ടിൽ വരുന്ന ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെ ബീജഗണിത സമവാക്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാനും അത് എളുപ്പത്തിൽ പരിഹരിക്കാനും കഴിയും എന്നതാണ് അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് സർക്യൂട്ടിന്റെ മൊത്തം പ്രതികരണം നൽകാൻ കഴിയും അതിൽ സ്വാഭാവികവും നിർബന്ധിതവുമായ പ്രതികരണങ്ങൾ അടങ്ങിയിരിക്കുന്നു അത് ഇവിടെ ഒരൊറ്റ പ്രവർത്തനത്തിൽ വരുന്നു ഇപ്പോൾ ലാപ്ലേസ് പരിവർത്തനത്തെ എങ്ങനെ നിർവചിക്കും ലാപ്ലേസ് പരിവർത്തനത്തെ F എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയും എന്താണ് s s എന്നത് ഒരു സങ്കീർണ്ണ വേരിയബിളാണ് അത് s 𝜎j⍵ ആണ് ഇപ്പോൾ എക്സ്പോണന്റിലെ st എന്ന ആർഗ്യുമെന്റ് അളവില്ലാത്തതായിരിക്കണം എന്നതിനർത്ഥം നിങ്ങൾ st കണ്ടാൽ t ടൈം ഡൊമെയ്നാണ് s ന് ഫ്രീക്വൻസിയുടെ അളവാണ് അതിനാൽ കോമ്പിനേഷൻ അളവില്ലാത്തതായിത്തീരും അതിനാൽ s ന് സെക്കന്റിന്റെ വിപരീത യൂണിറ്റ് ഉണ്ടാകും സമവാക്യം ൽ ലാപ്ലേസ് പരിവർത്തനത്തിന്റെ നിർവചനമാണ് കണ്ടത് 0 മൈനസ് എന്ന പരിധി സൂചിപ്പിക്കുന്നത് ടി 0 ന് തുല്യമാകുന്നതിനു തൊട്ടുമുമ്പുള്ള സമയത്തെക്കുറിച്ചാണ് സർക്യൂട്ട് ഓണാക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക തുടങ്ങിയ പ്രതിഭാസത്തെ ഉൾക്കൊള്ളുന്നു ഇതിനർത്ഥം സ്റ്റെപ്പ് റെസ്പോൺസ് അല്ലെങ്കിൽ ഇംപൾസ് റെസ്പോൺസ് പോലുള്ള സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ ഈ നിർവ്വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇത് സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ പോലുള്ള ഫംഗ്ഷനുകളെ ഉൾക്കൊള്ളുന്നു അത് ടി 0 ന് തുല്യമായ സമയത്ത് നിർത്തലാക്കാം ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് എന്ത് പറയാൻ കഴിയും ടൈം ഡൊമെയ്നിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമെയ്നിലേക്കുള്ള f ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ട്രാൻസ്ഫോമല്ലാതെ മറ്റൊന്നുമല്ല ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാൻ കഴിയും അത് F ആണ് ഇപ്പോൾ സമവാക്യം ൽ f 0 ൽ താഴെയുള്ള സമയത്തേക്ക് അവഗണിക്കപ്പെടുന്നുവെന്ന് കരുതുന്നുവെങ്കിൽ അതിനർത്ഥം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് ഗുണിച്ച ഒരു ഫംഗ്ഷനായി ഇതിനെ ഗണിതശാസ്ത്രപരമായി പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക f യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ക്ലബ്ബ് ചെയ്യാൻ കഴിയും അതിനാൽ f u എന്ന് എഴുതാം അല്ലെങ്കിൽ t പൂജ്യത്തിന് തുല്യമോ വലുതോ ആണെങ്കിൽ f എന്ന് പറയാൻ കഴിയും ഇപ്പോൾ ഈ സമവാക്യത്തിൽ ഇന്റഗ്രേഷൻ 0 മുതൽ ആരംഭിക്കുന്നു ഇൻഫിനിറ്റി വരെ അതിനാൽ ഇത് യൂണിലാറ്ററൽ ലാപ്ലേസ് പരിവർത്തനത്തിന്റെ ഒരു വശമാണെന്ന് അർത്ഥമാക്കുന്നു ഇപ്പോൾ ഇരുവശവും വേണമെങ്കിൽ അതാണ് ബൈലാറ്ററൽ പരിവർത്തനം അർത്ഥമാക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ F ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ f ഫംഗ്ഷന് എല്ലാ പോയിന്റുകളിലും ലാപ്ലേസ് പരിവർത്തനം ഉണ്ടാകണമെന്നില്ല അതിനാൽ f ന് ഒരു ലാപ്ലേസ് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഇന്റഗ്രൽ ഒരു പരിമിത മൂല്യമായിരിക്കണം അല്ലെങ്കിൽ അത് സംയോജിക്കണം ഇപ്പോൾ പദപ്രയോഗം കാണുകയാണെങ്കിൽ

നിങ്ങൾ s ന്റെ മൂല്യം ഇതിലേക്ക് ഇടുകയാണെങ്കിൽ ഇത്

അതിനാൽ എങ്ങനെ കാരണം ഇതാണ് ഓയിലറിന്റെ ഐഡന്റിറ്റി Eulers identity അതിനാൽ എന്ന് എഴുതാം ഇതിന്റെ മോഡ് എടുക്കുകയാണെങ്കിൽ ഇത് ആയി മാറും അതിനാൽ എന്ത് പറയാൻ കഴിയും t യുടെ ഏത് മൂല്യത്തിനും ആണ് എവിടെയും ഇത് ഒരു പരിമിത മൂല്യമാണെന്നാണ് ഇതിനർത്ഥം അതിനാൽ നിങ്ങൾക്ക് അത് പുറത്തെടുക്കാൻ കഴിയും പദപ്രയോഗത്തിന്റെ ഇടത് ഭാഗം ആണ് സംയോജനം പരിമിതമായിരിക്കണം അതിനാൽ ഈ പദപ്രയോഗത്തിന്റെ മൂല്യം ഇൻഫിനിറ്റിയേക്കാൾ കുറവായിരിക്കണം ഇത് ഒരു യഥാർത്ഥ മൂല്യ സിഗ്മയ്ക്ക് ബാധകമാകും സിഗ്മയുടെ മൂല്യം സിഗ്മ സി ആണെന്ന് അനുമാനിക്കാം അതിനാൽ ലാപ്ലേസ് പരിവർത്തനത്തിനായുള്ള റീജിയൺ ഓഫ് കൺവേർജൻസ് മൂല്യം ഇതിലൂടെ കണ്ടെത്താൻ കഴിയും പരിഹാരം കൂടിച്ചേരുന്നതിന് S ന്റെ യഥാർത്ഥ ഘടകം ആണെന്ന് പറയാൻ കഴിയും അതിനാൽ കോമ്പ്ലെക്സ് പ്രതലത്തിൽ പ്രത്യേക അവസ്ഥ കണ്ടാൽ x അക്ഷത്തിലും ω y അക്ഷത്തിലും വ്യത്യാസപ്പെടുന്നു അതിനാൽ എന്ന അവസ്ഥ അത് അതിർത്തി രേഖയാണ് അതിനാൽ സി സംയോജിപ്പിക്കുന്നതിനുള്ള പദപ്രയോഗത്തിനുള്ള പരിഹാരം എന്ന നിർണായക മൂല്യത്തേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ ന്റെ വലതുവശത്ത് പരിഹാരമുണ്ടെങ്കിൽ ലാപ്ലേസ് പരിവർത്തനം നിലനിൽക്കുമെന്ന് പറയും ഇടതുവശത്തെ അവസ്ഥയ്ക്ക് പരിഹാരം ഇല്ലെങ്കിൽ ലാപ്ലേസ് പരിവർത്തനം നിലനിൽക്കില്ലെന്ന് പറയും അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും മോഡ് F ഇൻഫിനിറ്റിയേക്കാൾ കുറവാണെങ്കിൽ അതിനർത്ഥം പരിഹാരം നിലനിൽക്കുമെന്നും ബാക്കി പുറത്തുള്ള ഭാഗത്തിന് പരിഹാരം കൂടിച്ചേരുകയില്ലെന്നും അതിനാൽ ലാപ്ലേസ് പരിവർത്തനം ആ പ്രത്യേക ഭാഗത്ത് നിലനിൽക്കില്ലെന്നും അർത്ഥമാക്കുന്നു അടുത്തതായി വിപരീത ലാപ്ലേസ് പരിവർത്തനം കണ്ടെത്തേണ്ടതുണ്ട് അത് നൽകുന്നത് അതിനാൽ ഒരു നേർരേഖയിൽ ഇന്റഗ്രേഷൻ നടത്തുന്ന വിപരീത ലാപ്ലേസ് പരിവർത്തനം കണ്ടെത്തുന്നതിനുള്ള പദപ്രയോഗമാണിത് അതിനാൽ അത് σ1 jω −∞ ω ∞ അതിനാൽ ഏതെങ്കിലും σ1 നുള്ള ഇന്റഗ്രേഷൻ ഈ പ്രത്യേക വരിയിൽ വീണ്ടും നടക്കുമെന്ന് കാണും അതിനാൽ f F ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ജോഡിയായി കണക്കാക്കപ്പെടുന്നു ഇവിടെ f F എന്നിവയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ജോഡികൾ അതിനാൽ f ഉം F ഉം തമ്മിൽ വളരെ സാമ്യമുണ്ടെന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം അതുവഴി നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ആദ്യം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുക്കാം അത് u ആണ് ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം കണ്ടെത്തണം ഇത് കാണുകയാണെങ്കിൽ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ സമയം ടി 0 നേക്കാൾ വലുതാകുമ്പോൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ മൂല്യം 1 ആണ് 0 ന് താഴെയാകുമ്പോൽ ഇത് 0 ആണ് അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ആവശ്യപ്പെടുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ എക്സ്പ്രഷൻ ഉപയോഗിക്കും ഇപ്പോൾ ഈ മൂല്യം 0 പ്ലസിന് 1 ആണ് അതിനാൽ നമുക്ക് പരിധി മാറ്റാം അതിനാൽ ഇത് 0 മുതൽ ഇൻഫിനിറ്റി ആയി മാറും ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഘടകം മാത്രമാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കും അതിനാൽ പരിധി നിശ്ചയിക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം തുല്യമായിരിക്കും അതിനാൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൂല്യം ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് a എന്നത് 0 നേക്കാൾ വലുതാണ് ഫംഗ്ഷന്റെ മൂല്യം ഇന്റഗ്രേഷനിൽ ഉൾപ്പെടുത്തുകയും പരിഹരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രേഷന്റെ ഔട്ട്പുട്ട് ആയി ലഭിക്കും ഇവിടെയും 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേഷൻ ചെയ്യും കാരണം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ മൂല്യം 0 മുതൽ ഇൻഫിനിറ്റി വരെ 1 മാത്രമാണ് അതിനാൽ ന്റെ ലാപ്ലേസ് പരിവർത്തനം അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ മൂന്നാമത്തെ ഫംഗ്ഷൻ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനാണ് അതിനാൽ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ ഇവിടെ കാണും അതിനാൽ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ അവസ്ഥ ഓർക്കുന്നുവെങ്കിൽ

എന്ന മൂല്യം ചർച്ചചെയ്തു കാരണം ഈ പ്രത്യേക യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ വിസ്തീർണ്ണം 1 ആയിരിക്കും കൂടാതെ ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഈ പരിമിതികളെ 0 മൈനസ് മുതൽ 0 പ്ലസ് വരെ മാറ്റിസ്ഥാപിക്കാം കാരണം ന്റെ മൂല്യം 0 ആയിരിക്കും അതിനാൽ ഈ അറിവ് പ്രയോഗിക്കുകയും ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇംപൾസ് ഫംഗ്ഷൻ സമയം 0 എന്നതിലുപരി എല്ലായിടത്തും 0 ആണ് അതിനാൽ ഇന്റഗ്രേഷൻ മൂല്യം ലഭിക്കും ഇ പവർ 0 മൈനസ് ഇതിന്റെ മൂല്യം 1 അതിനാൽ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ ലാപ്ലേസ് 1 ആണ് അടുത്തതായി ഫംഗ്ഷൻ fsin ωt u നോക്കാം 0 മൈനസ് മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഫംഗ്ഷന്റെ ലാപ്ലേസ് ഫംഗ്ഷൻ നോക്കാം അതിനാൽ ഇത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സൈൻ ഒമേഗ ടി യുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഫംഗ്ഷനാണ് ഇതിനർത്ഥം പരിധി 0 മൈനസ് എന്നതിനുപകരം 0 മുതൽ ഇൻഫിനിറ്റി വരെ പരിധി നിശ്ചയിക്കാമെന്നാണ് കാരണം ആ കാലയളവിൽ മാത്രമേ സൈനിന്റെ മൂല്യം ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ മൂല്യം 0 ആണ് അതിനാൽ എന്താണ് എഴുതാൻ കഴിയുക

നമുക്ക് sin ωt പദം എക്സ്പോണൻഷ്യൽ രൂപത്തിൽ പരിവർത്തനം ചെയ്യാനാകും അത്

ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിയും കാരണം അത് സ്ഥിരമാണ് നിങ്ങൾ ക്ലബ് ചെയ്യുമ്പോൾ എക്സ്പോണന്റ് രൂപത്തിൽ എക്സ്പ്രഷൻ ലഭിക്കും

ഇപ്പോൾ എക്സ്പ്രഷനുകളുടെ മൂല്യം ഇപ്പോൾ കണക്കാക്കി അത് അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കും അത് അതുപോലെ നിങ്ങൾ sin ωt പകരം cos ωt ഇട്ടാൽ എന്ന പദപ്രയോഗം ലഭിക്കും അതിനാൽ ഇന്റഗ്രേഷൻ പരിഹരിച്ച് cos ωt ന്റെ മൂല്യം നൽകിക്കൊണ്ട് ഇത് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ആ സാഹചര്യത്തിൽ എക്സ്പ്രഷൻ മാറുകയും നിങ്ങൾക്ക് പരിഹരിക്കുകയും ചെയ്യാം ഇപ്പോൾ ലാപ്ലേസ് പരിവർത്തനത്തിന്റെ ചില പ്രോപ്പർട്ടികൾ നോക്കാം ഇന്റഗ്രേഷൻ രീതി നേരിട്ട് ഉപയോഗിക്കാതെ ഈ മൂല്യങ്ങൾ നേടാൻ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സവിശേഷതകൾ സഹായിക്കുന്നു അതിനാൽ നമ്മൾ ആരംഭിച്ച പ്രാരംഭ പദപ്രയോഗം ആയിരുന്നു അതിനാൽ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങളുമായി പോകുന്നതിനുപകരം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൂല്യം നേരിട്ട് കണ്ടെത്താൻ വിവിധ പ്രോപ്പർട്ടികൾ ഉപയോഗിക്കും അതിനാൽ ആ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ലീനിയാരിറ്റി ലീനിയാരിറ്റി എന്നാൽ F1 F2 എന്നിവയാണ് f1 f2 എന്നിവയുടെ ലാപ്ലേസ് പരിവർത്തനം എങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും ഇവിടെ a1 a2 എന്നിവ സ്ഥിരമാണ് അതിനാൽ ഇത് ലാപ്ലേസ് പരിവർത്തനത്തിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കാണിക്കും അതിനാൽ അടുത്തത് സ്കെയിലിംഗ് ആണ് അതിനാൽ f യുടെ ലാപ്ലേസ് പരിവർത്തനമാണ് F എങ്കിൽ f ന്റെ ലാപ്ലേസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ അത് പരിഹരിക്കാം ഇവിടെ a എന്നത് ഒരു സ്ഥിരവും a 0 ഉം ആണ് നമ്മൾ xat dx a dt എന്ന് എടുത്താൽ x ന്റെ മൂല്യം at എന്ന് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ അതിനാൽ f f ആയി മാറും അപ്പോൾ ഉം dx a dt ഉം ആയി മാറും അതിനാൽ ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും താരതമ്യം ചെയ്താൽ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ അടിസ്ഥാന നിർവചനമാണ് അതിനാൽ അതിനർത്ഥം s നെ a കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു എന്നാണ് നിങ്ങൾ s നെ a ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചാൽ രണ്ടും തുല്യമായിരിക്കും അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമിന്റെ നിർവചനം താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് നിർവചനത്തിൽ s എന്ന് കാണിക്കുന്നു ഡമ്മി വേരിയബിൾ ടി x ഉപയോഗിച്ച് മാറ്റുമ്പോൾ s നെ a കൊണ്ട് മാറ്റിസ്ഥാപിക്കുക അതിനാൽ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലളിതമായി പറയാൻ കഴിയും അതിനാൽ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചത് 1 ബൈ a സ്ഥിരമാണ് അത് പുറത്തെടുക്കാൻ കഴിയും ഇപ്പോൾ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ ഒരേയൊരു വ്യത്യാസം നിങ്ങൾ s ഉപയോഗിച്ച് a കൊണ്ട് മാറ്റിസ്ഥാപിച്ചു എന്നതാണ് അതിനാൽ രണ്ട് സമവാക്യങ്ങളും ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ഈ ലളിതമായ താരതമ്യത്തിലൂടെ അത് പറയാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക അവസ്ഥ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാമെന്നതിനാൽ പറയാൻ കഴിയും sin ωt അപ്പോൾ sin 2ωt ഇതിനെയാണ് സ്കെയിലിംഗ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ടൈം ഷിഫ്റ്റായ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം അതിനാൽ f യുടെ ലാപ്ലേസ് പരിവർത്തനമാണ് F എങ്കിൽ നൽകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റാൻഡേർഡ് നിർവചനം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ta യ്ക്ക് ut − a 0 ഉം ta യ്ക്ക് ut − a 1 ഉം അതിനാൽ ഈ പ്രോപ്പർട്ടി പയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഇന്റഗ്രേഷൻ മാറും ഇപ്പോൾ x എന്നത് മറ്റൊരു വേരിയബിളാണെന്ന് കരുതുക അത് xt a ഇപ്പോൾ dx dt t x a എന്നിവ അനുവദിക്കുക t → a ആകുമ്പോൾ x → 0 t→∞ ആകുമ്പോൾ x→∞ അതിനാൽ ഈ നിബന്ധനകൾ ഉപയോഗിക്കുന്നതിലൂടെ അപ്ഡേറ്റ് ചെയ്ത ഇന്റഗ്രേഷൻ വരും ഇപ്പോൾ ഈ പദപ്രയോഗം സ്ഥിരമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പുറത്തെടുക്കാം നമുക്ക് അവശേഷിക്കുന്നത് ആണ് അത് f ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് നിർവചനവുമായി താരതമ്യം ചെയ്താൽ ഇത് f ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമാണെന്ന് പറയാൻ കഴിയും അതിനാൽ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം s ആണെന്ന് ലളിതമായി പറയും ഒടുവിൽ ലഭിച്ചത് ഇതാണ് ഇതിനെ ടൈം ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു അതായത് ഒരു ഫംഗ്ഷൻ സമയം a കൊണ്ട് കാലതാമസം നേരിടുന്നുവെങ്കിൽ s ഡൊമെയ്നിലെ ഫലം ഫംഗ്ഷന്റെ ലാപ്ലേസ് പരിവർത്തനത്തെ ന്റെ കാലതാമസത്തോടെ ഗുണിക്കുന്നു നിങ്ങൾക്ക് ഫംഗ്ഷനിൽ സമയ കാലതാമസം ഉണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമിനെ കൊണ്ട് ഗുണിച്ചാൽ a എന്ന സ്ഥിരമായ മൂല്യങ്ങളാൽ കാലതാമസം നേരിടുന്ന ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് പരിവർത്തനം ലഭിക്കുന്നു അതിനാൽ ഈ പ്രത്യേക പ്രോപ്പർട്ടിയെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ സമയ കാലതാമസം അല്ലെങ്കിൽ ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു അതിനാൽ ഇതുപയോഗിച്ച് ഒരു ഉദാഹരണമെടുക്കാം cos ωt ഇപ്പോൾ cos ω ന്റെ മൂല്യം കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുചെയ്യണം നിങ്ങൾക്ക് ലഭിക്കും

ഇപ്പോൾ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ ചർച്ച തുടരും അവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ കുറച്ച് സവിശേഷതകൾ കൂടി ചർച്ച ചെയ്യും